പ്രിയപ്പെട്ട പങ്കാളികളെ സ്വാഗതം ചെയ്യുന്നു ഈ മൊഡ്യൂളിൽ നമ്മൾ പുഞ്ചിരിയുടെ തരങ്ങൾ സാംസ്കാരിക വ്യത്യാസങ്ങൾ എന്നിവ പരിശോധിക്കുകയും പുഞ്ചിരിയെയും ഹെഡ് നോഡുകളെയും വ്യാഖ്യാനിക്കുകയും ചെയ്യും അലൻ പീസ് പുഞ്ചിരിയാണ് ഈ പുഞ്ചിരി സാധാരണയായി പ്രദർശിപ്പിക്കുന്നത് ആളുകൾ അവരുടെ ചിന്തകൾ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കാത്തപ്പോൾ ആണ് അവരുടെ മനോഭാവം നിയന്ത്രിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അവരുടെ ആശയങ്ങൾ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു അതേ സമയം അവർ മാന്യരായ ആളുകളായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു ഈ ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ചുണ്ടുകൾ മുഖത്ത് കുറുകെ നീട്ടി ചുണ്ടുകൾ ഒരു നേർരേഖയിലാണ് അതിനാൽ ഇത്തരത്തിലുള്ള ഒരു പുഞ്ചിരി മിക്കപ്പോഴും നിങ്ങൾ വളരെ വിജയകരമായ ആളുകളുടെ ഫോട്ടോഗ്രാഫുകളിലും വീഡിയോകളിലും കണ്ടെത്തും അവർ വിജയത്തെക്കുറിച്ചും അതിന്റെ പിന്നിലുള്ള പാരാമീറ്ററുകളെക്കുറിച്ചും സംസാരിക്കുമെങ്കിലും യഥാർത്ഥ ജീവിത കഥകൾ ഒരിക്കലും വെളിപ്പെടുത്തില്ല അതേസമയം റ്റൈറ്റ് ലിപ്ഡ് പുഞ്ചിരി ഒരു ഗ്രൂപ്പിലെക്ക് പുതിയ ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് നിർദ്ദേശിക്കുന്നതിനുള്ള ഒരു സന്ദേശമായി മാറുന്നുവെന്ന് നമുക്ക്കാണാൻ കഴിയും റ്റ്വിസ്റ്റഡ് പുഞ്ചിരിയാണ് അടുത്തതരം പുഞ്ചിരി തലച്ചോറിന്റെ രണ്ട് വശങ്ങളും വ്യക്തിക്ക് പരസ്പരവിരുദ്ധമായ സന്ദേശങ്ങൾ അയച്ചതായി ഇവിടെ കാണാം ഇത് മുഖത്തിന്റെ ഓരോ വശത്തും വിപരീത വികാരങ്ങൾ കാണിക്കുന്നു ഇടത് മസ്തിഷ്കം പേശികളെ താഴേക്ക് വലിക്കുകയും തലച്ചോറിന്റെ വലതുഭാഗം ഇടത് കൈ പുരികങ്ങളും ചുണ്ടുകളും കവിളുകളും ഉയർത്തുകയും അതിനാൽ ഈ പുഞ്ചിരി സമ്മിശ്ര വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അധരങ്ങളുടെ താഴേക്കുള്ള ചരിവ് നെഗറ്റീവ് കണക്കാക്കപ്പെടുന്നു പക്ഷേ ഇത് മനപൂർവ്വം ചെയ്യാമെന്നും ചില സന്ദർഭങ്ങളിൽ ലജ്ജയും പരിഹാസ സന്ദേശങ്ങളും അയയ്ക്കുമെന്നും നമ്മുടെ അനുഭവം പറയുന്നു അലൻ പീസ് പറയുന്ന മൂന്നാമത്തെ തരം പുഞ്ചിരി ഡ്രോപ്പ് ജോ ആണ് ഇത് ഒരു പുഞ്ചിരിയുടെ അതിശയോക്തിയാണ് മിക്കപ്പോഴും ഇത് ഒരു വലിയ കൂട്ടം ആളുകളുമായി പ്രത്യേകിച്ച് ഒരു ജനക്കൂട്ടവുമായി ഇടപഴകുമ്പോൾ പൊതുജനങ്ങളുമായി സംവദിക്കേണ്ട ആളുകൾ ഉപയോഗിക്കുന്നു അതിനാൽ ഈ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവർ സന്തുഷ്ടരും രസികരും ആണെന്ന ധാരണ കൈമാറാൻ അവർ ആഗ്രഹിക്കുന്നു ഒപ്പം ഒരു പ്രത്യേക ഉല്ലാസവും ഉണ്ടെന്ന ധാരണ കൈ മാറുന്നു അതേസമയം വിവിധ സാമൂഹിക അവസരങ്ങളിൽ മറ്റ് ആളുകളിൽ ശത്രുത അല്ലെങ്കിൽ കോപം കുറയ്ക്കുന്നതിന് ഇത് പ്രദർശിപ്പിക്കുമെന്ന് നമ്മൾ കണ്ടെത്തും അതിനാൽ ഇത് ഒരു പോസിറ്റീവ് പുഞ്ചിരിയുടെ അതിശയോക്തിയാണ് സൈഡ്വേസ് ലുകിങ് അപ് പുഞ്ചിരി ഈ ഫോട്ടോയിൽ എളുപ്പത്തിൽ കാണാൻ കഴിയും അതിനാൽ ഇത് തുറന്ന പ്രകൃതവും ലജ്ജാശീലവും ഉൾക്കൊള്ളുന്നു ഇത് സ്വാഗതാർഹവും അതേ സമയം സംവരണം ചെയ്യപ്പെടുന്നതും ആളുകളെ ഒഴിവാക്കാനുള്ള പ്രവണതയും സൂചിപ്പിക്കുന്നു ഈ പുഞ്ചിരി മറ്റുള്ളവരിൽ കാണുമ്പോൾ അത് എങ്ങനെയെങ്കിലും നമ്മിൽ ഒരു രക്ഷാകർതൃ വികാരം ഉളവാക്കുകയും അത്തരമൊരു വ്യക്തിയെ സംരക്ഷിക്കാനോ പരിപാലിക്കാനോ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഡയാന രാജകുമാരി ഈ പുഞ്ചിരി അനശ്വരമാക്കി അവർ എവിടെ പോയാലും ആളുകളുടെ ഹൃദയത്തെ ആകർഷിച്ചു ഒരു പുഞ്ചിരി ദയനീയമായി കാണപ്പെടുമ്പോൾ അത് കൃത്യമായി വേദനയിലല്ലെന്ന് നിർദ്ദേശിക്കാൻ സഹായിക്കുന്ന ഒരു മാസ്കാണ് അതിനാൽ നമ്മൾ നമ്മുടെ സങ്കടവും വേദനയും മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അത് സഹിക്കാൻ കഴിയും എന്ന ആശയം മറികടക്കുന്നതിനുള്ള ഒരു സാമൂഹിക മാർഗമാണിത് അതിനാൽ ഈ പുഞ്ചിരിയും അല്പം അസമമാണ് കാരണം പുഞ്ചിരി കണ്ണുകളിൽ എത്തുന്നില്ല കണ്ണുകൾ സങ്കടത്തോടെ തുടരുന്നു വളരെ സന്തോഷമുള്ള ഡുചെൻ പുഞ്ചിരിയെ പുഞ്ചിരി അതിനാൽ ഹൃദയത്തിൽ ഒരു യഥാർത്ഥ ഊഷ്മളത ഉണ്ടെന്നും അത് ആ വ്യക്തിക്ക് അറിയാമെന്നും ഇവിടെ നമ്മൾ കണ്ടെത്തും തുറന്ന രീതിയിൽ പുഞ്ചിരിക്കാൻ ഒരു കാരണമുണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും സോഷ്യൽ കർട്ട്സി പുഞ്ചിരി എന്നറിയപ്പെടുന്നു ഉദാഹരണത്തിന് ഒരു ചൂടുള്ള കേക്കിൽ നനഞ്ഞ തുണി ഇടുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സാഹചര്യത്തിലല്ല എന്ന് നമ്മൾ അറിയുമ്പോൾ ആണ് ഈ പുഞ്ചിരി കൈമാറുന്നത് അടുത്തത് ക്വാളിഫയർ പുഞ്ചിരിയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്കാവില്ലെന്ന് തോന്നുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നാൽ അതേ സമയം മറ്റേയാൾക്ക് മോശമായി തോന്നരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് മോശം വാർത്തകളുടെ ആശയവിനിമയം ലഘൂകരിക്കുകയും നെഗറ്റീവ് ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു പുഞ്ചിരിയോടെ കൈമാറും പരിശീലനം ഉള്ള പുഞ്ചിരി അതിനാൽ ഇതൊരു ക്വാളിഫയർ പുഞ്ചിരിയാണ് അതിനാൽ ഇത് പലപ്പോഴും നമ്മെ അലോസരപ്പെടുത്തുന്നു കാരണം ഒന്നുകിൽ നമ്മൾ വീണ്ടും പുഞ്ചിരിയിൽ കുടുങ്ങുകയോ സാഹചര്യം നമ്മളെ പുഞ്ചിരിക്കാൻ അനുവദിക്കുകയോ ഇല്ല അതുപോലെ നമ്മുടെ പുച്ഛം കാണിക്കുന്ന ഒരു പുഞ്ചിരി ഉണ്ട് അത് വെറുപ്പിന്റെയും നീരസത്തിന്റെയും മിശ്രിതമാണ് മാത്രമല്ല ചില പ്രധാന വ്യത്യാസങ്ങളുള്ള യഥാർത്ഥ ആനന്ദത്തിന്റെ പുഞ്ചിരിയുമായി ഇത് വളരെ സാമ്യമുള്ളതാണ് ഒരു പ്രധാന വ്യത്യാസം ചുണ്ടുകളുടെ മൂല താരതമ്യേന ശക്തമായി കാണപ്പെടുന്നു നമ്മൾ സാമൂഹിക സാഹചര്യങ്ങളിൽ ആയിരിക്കുമ്പോൾ ഈ അവഹേളന പുഞ്ചിരി പലപ്പോഴും ദൃശ്യമാകും അതുപോലെ വ്യക്തിഗത ആവശ്യങ്ങൾ എല്ലായ്പ്പോഴും ശ്രദ്ധാകേന്ദ്രമല്ലാത്ത സംസ്കാരങ്ങളിലും ഇത് കാണാൻ കഴിയും നെഗറ്റീവ് വികാരങ്ങൾ മറയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് കോപം തുടങ്ങിയവ സാമൂഹിക ഐക്യം നിലനിർത്തുന്നതിന് സിനിമകളുടെയും സമാനമായ മീഡിയയുടെയും പ്രധാന ആകർഷണമായി മാറിയ മറ്റൊരു തരം പുഞ്ചിരി ആങ്ഗ്രി എൻജോയമൻറ്റ് പദമാണ് ഈ പദം ക്ഷുദ്രകരമായ സന്തോഷം അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ നിർഭാഗ്യത്തിൽ ആനന്ദം കണ്ടെത്തുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ അത് മറ്റേയാൾ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ ആവേശത്തിന്റെ അല്ലെങ്കിൽ സ്വയം സംതൃപ്തിയുടെ പ്രകടനമാണ് ഈ വികാരത്തിന്റെ കാരണങ്ങൾ വ്യത്യസ്ത ആളുകളിൽ വ്യത്യസ്തമാണെന്ന് പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്നു ചിലപ്പോൾ ഇത് ഒരു വ്യക്തിയോടുള്ള വ്യക്തിപരമായ വികാരവുമായി ബന്ധപ്പെട്ടിരിക്കാം ചിലപ്പോൾ സാമൂഹികമോ സാംസ്കാരികമോ ആയ പ്രശ്നങ്ങളുണ്ടാകാമെന്നും ആത്യന്തികമായി നിലനിൽക്കുന്ന നീതിബോധം ഉണ്ടാകാമെന്നും നമ്മൾ കണ്ടെത്തിയേക്കാം ഉദാഹരണത്തിന് ഒരു വ്യക്തി പെട്ടെന്ന് ധനികനും അനീതിപരമായ മാർഗ്ഗങ്ങളിലൂടെ സ്വാധീനിക്കപ്പെട്ടവനുമാണെന്ന് നമുക്ക് തോന്നാം എന്നിരുന്നാലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിയമത്തിന് ആ വ്യക്തിയിൽ എത്തിച്ചേരാനും അവനെ പിടികൂടാനും കഴിയുമ്പോൾ നമുക്ക് ഒരുതരം ആസ്വാദ്യത അനുഭവപ്പെടും ഈ സാഹചര്യങ്ങളിൽ ഈ പുഞ്ചിരി പ്രതിഫലിക്കുന്നു ഈ പുഞ്ചിരി സങ്കീർണ്ണമായ വികാരങ്ങളെ മറയ്ക്കുന്നു അത് ആക്രമണാത്മക വികാരങ്ങളെ മറയ്ക്കുന്നു അത് വൈരാഗ്യത്തിന്റെ ഒരു വികാരത്തിൽ നിന്ന്ഒരു എതിരാളി പരാജയപ്പെടുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ അഭിപ്രായമിട്ടതുപോലെയും ആത്യന്തികമായി നീതി ലഭിക്കുന്നതിന്റെ ഫലമായിരിക്കാം എന്നതിൽ നിന്ന് ഉടലെടുത്തേക്കാം ഈ പുഞ്ചിരി മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിക്കും ഡുചെൻ പുഞ്ചിരി എന്നറിയപ്പെടുന്നവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ നിബന്ധനകളിലാണ് മറ്റുള്ളവരുടെ അസന്തുഷ്ടിയിൽ വളരെയധികം സന്തോഷം കാണിക്കരുത് കാരണം അടിസ്ഥാനപരമായി നാമെല്ലാം സാമൂഹിക ആളുകൾ ആണ് ആരെങ്കിലും കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ വളരെയധികം ആസ്വാദ്യകരമായ വികാരത്തെ നമ്മുടെ മുഖത്തിന്റെ ചില ഭാഗങ്ങളിൽ മറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നു നമ്മുടെ കണ്ണുകൾ യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കും പക്ഷേ പുഞ്ചിരി നമ്മുടെ മുഖത്ത് ഉണ്ടാകും ഈ പുഞ്ചിരിയുടെ വിചിത്രതയാണ് ഇതിനെ ഹൊറർ മൂവി വില്ലന്മാരുടെ പ്രധാനസവിശേഷതയായി മാറ്റിയത് മര്യാദയുള്ള അഥവാ പോലൈറ്റ് പുഞ്ചിരി സൂചിപ്പിക്കുന്നത് പുഞ്ചിരി സ്വീകരിക്കുക എന്നത് നമ്മുടെ സോഷ്യൽ ഫോക്സ് പാസുകളെ മറികടക്കുന്നതിനും ചില അസുഖകരമായ സംഭവങ്ങളെ മൃദുവാക്കുന്നതിനും ഞാൻ പുഞ്ചിരിക്കുന്നതെങ്ങനെയെന്നതിന്റെ മറ്റൊരു രസകരമായ ഉദാഹരണം കൂടിയാണ് ഉദാഹരണത്തിന് നമ്മൾ ഒരു സഹവ്യക്തിയുടെ വസ്ത്രത്തിൽ ഒരു പാനീയം വിതറി നമ്മുടെ ഇടപെടൽ മുതലായവയിൽ മറ്റേ വ്യക്തിയുടെ പേര് നമ്മൾ മറന്നു അതിനാൽ ഈ പുഞ്ചിരി ഈ സാഹചര്യങ്ങളുടെ അസ്വാഭാവികതയെ ചെറിയ രീതിയിലെങ്കിലും മറികടക്കാൻ സഹായിക്കുന്നു ആളുകൾ കൂടുതൽ ക്ഷമിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്നും നിരവധി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ആശയവിനിമയത്തിൽ അത്തരം പുഞ്ചിരിയുടെ സഹായത്തോടെ തൻറെ നാണക്കേട് പുറത്ത് കാണിക്കുന്ന ആളുകളോട് നമ്മൾ കൂടുതൽ ക്ഷമിക്കുന്നതായും നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു നമ്മുടെ പുഞ്ചിരിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വശം അതിന്റെ ധാരണയും സാംസ്കാരിക ധാരണകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ഒരു പുഞ്ചിരി വ്യത്യസ്തമായി പരിശീലിക്കുന്നതായി നമ്മൾ കണ്ടെത്തി കാരണം ആത്യന്തികമായി പുഞ്ചിരിയെ നിയന്ത്രിക്കുന്നത് ആ സാമൂഹിക സ്വീകാര്യമായ പ്രദർശന നിയമങ്ങളാണ് എല്ലാ സംസ്കാരങ്ങളിലുമുള്ള നമ്മളെല്ലാവരും ഡുചെൻ പുഞ്ചിരി എന്നിവ പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു പുഞ്ചിരി എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നത് നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലത്തെ ആശ്രയിച്ചിരിക്കുന്നു ഏതൊരു വ്യക്തിയുമായും ഇടപഴകുമ്പോൾ സന്തോഷകരമായ ഒരു പുഞ്ചിരി ഒരു ഡുചെൻ പുഞ്ചിരി ഉപയോഗിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് ചില ഗവേഷണങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സമൂഹത്തിന്റെ മര്യാദകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടാൻ ഉപയോഗിക്കുന്ന പുഞ്ചിരിയാണ് സോഷ്യൽ എന്ന ആശയം ഇപ്പോഴും ബ്രിട്ടീഷ് സമൂഹത്തിന്റെ ചില സർക്കിളുകളിൽ വളരെ കൃത്യമായി നടക്കുന്നു സ്റ്റാൻഫോർഡിലെ നടത്തിയ ഒരു ഗവേഷണം നമ്മുടെ സംസ്കാരം പുഞ്ചിരിയെ എങ്ങനെ കാണുന്നു സ്വാധീനിക്കുന്നു നമ്മുടെ സംസ്കാരത്തിലെ ആളുകൾ എങ്ങനെ പുഞ്ചിരിക്കുന്നു എന്നത് ഉദ്ധരിക്കുന്നത് രസകരമാണ് അവർ ഇങ്ങനെ പറയുന്നു മിക്കപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് അവർ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക ഫോട്ടോ കാണുമ്പോൾ അവർ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഒരു സവിശേഷ സ്വഭാവവിശേഷങ്ങൾ പഠിക്കുകയാണെന്നും എന്നാൽ ഞങ്ങളുടെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് അവർ സ്ഥാനാർത്ഥികളുടെ സംസ്കാരത്തെക്കുറിച്ചും അത് വിലമതിക്കുന്ന വികാരങ്ങളെക്കുറിച്ചും പഠിക്കുന്നു എന്നാണ് ഇത് ഒരു സുപ്രധാന ഗവേഷണമാണ് കാരണം വ്യക്തിഗത വികാരങ്ങളുടെ ആവിഷ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുപകരം വ്യക്തിഗത ആവിഷ്കാരം എങ്ങനെ സാംസ്കാരികമായി വ്യവസ്ഥ ചെയ്യപ്പെടുന്നുവെന്നും സാംസ്കാരികമായി ഉദ്ധരിക്കപ്പെടുന്നുവെന്നും ഗവേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നു വിവിധ രാജ്യങ്ങളിലുടനീളമുള്ള നേതാക്കളുടെ വൈകാരിക പ്രകടനങ്ങളെ അവർ താരതമ്യം ചെയ്തു ഒരു പ്രത്യേക രാഷ്ട്രം അവരുടെ നേതാക്കൾ കൂടുതൽ ആവേശകരമായ പുഞ്ചിരി കാണിച്ചതിനാൽ കൂടുതൽ ആവേശം ഉപയോഗിക്കുമെന്ന നിഗമനത്തിലെത്തി അവർ അമേരിക്കൻ നേതാക്കളുടെ ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചു മറുവശത്ത് ചില പ്രത്യേക രാജ്യങ്ങൾ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനനുസരിച്ച് അവിടുത്തെ നേതാക്കൾ അവരുടെ സാമൂഹിക ഇടപെടലുകളിൽ ശാന്തമായ പുഞ്ചിരി കാണിക്കുന്നു ഇതിനായി കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെയും അവരുടെ രാഷ്ട്രീയ നേതാക്കളുടെയും മാതൃക നൽകുന്നു ഈ ഗവേഷണത്തിൽ അവർ ഒരു വാചകം ഉപയോഗിച്ചു ഈ വാചകം ഞാൻ ഉദ്ധരിക്കുന്നു 'ഒരു രാജ്യത്തിന്റെ അനുയോജ്യമായ ഫലം' ഈ വാക്യം സാംസ്കാരികമായി മൂല്യവത്തായ വികാരങ്ങളായി നിർവചിക്കപ്പെടുന്നു അത് ആളുകൾ അത് എങ്ങനെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു അത് അവരുടെ ശരീരഭാഷയിൽ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു ഈ ആശയത്തെ പിന്തുണയ്ക്കുന്ന മറ്റൊരു ഗവേഷണം കാർമെൻ ജൂഡിത്ത് നൈൻ കർട്ട് ആശയവിനിമയത്തിലാണ് ആംഗ്ലോ സംസ്കാരത്തിൽ സൌഹാർദ്ദ സർക്കിളുകളിൽ പുഞ്ചിരി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഗുരുതരമായ സാഹചര്യങ്ങളിൽ അപൂർവമായി മാത്രമേ അവർ പുഞ്ചിരി ഉപയോഗിക്കാറുള്ളൂ ഉദാഹരണത്തിന് പഠന സ്ഥലങ്ങളിലും ക്ലാസ് മുറികളിലും ഓഫീസിലും ജോലിസ്ഥലങ്ങളിലും ആയിരിക്കുമ്പോൾ ആളുകൾ വളരെ കുറച്ച് ആണ് പുഞ്ചിരിക്കുന്നത് അതുപോലെ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ പല വാക്കാലുള്ള പദപ്രയോഗങ്ങൾക്ക് പകരമായി പുഞ്ചിരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഈ ഗവേഷണത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഉദാഹരണത്തിന് യഥാർത്ഥത്തിൽ ഹായ് എന്ന് പറയുന്നതിനുപകരം അല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കുന്നതിനു പകരം ലാറ്റിനമേരിക്കയിലെ ഒരു വ്യക്തി ഒരു വ്യക്തിയെ നോക്കി പുഞ്ചിരിക്കാൻ താൽപ്പര്യപ്പെട്ടേക്കാം തുടർന്ന് അവരുടെ പുഞ്ചിരി മറ്റൊരു വ്യക്തിയുടെ നന്ദി മനോഭാവത്തെ സൂചിപ്പിക്കും കൃതജ്ഞത വാചികമായി പ്രകടിപ്പിക്കുന്നത് ചില സംസ്കാരങ്ങളിൽ ഔപചാരികവും വ്യക്തിപരമല്ലാത്തതുമായി തോന്നാം ചില സംസ്കാരങ്ങളിൽ ഒരു സുഹൃത്ത് ഈ വികാരങ്ങൾ വാക്കാലുള്ള രീതിയിൽ പ്രകടിപ്പിക്കുകയാണെങ്കിൽ സുഹൃത്ത് സ്വയം അകലം പാലിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ നിരസിക്കുകയോ ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാം ക്രോസ് കൾച്ചറൽ സ്വാധീനങ്ങൾ മറ്റ് ആളുകളുടെ പെരുമാറ്റത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്ന രീതിയെ ബാധിച്ചേക്കാം സാംസ്കാരിക വ്യത്യാസങ്ങളെക്കുറിച്ചും അവരുടെ പുഞ്ചിരിയെക്കുറിച്ചും ഒരാൾക്ക് അറിയില്ലെങ്കിൽ മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരാൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എളുപ്പമാണ് ഉദാഹരണത്തിന് ലാറ്റിനമേരിക്കൻ സുഹൃത്ത് വളരെയധികം പുഞ്ചിരിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ പുഞ്ചിരി അനുചിതമാണെന്നും ഒരു ബ്രിട്ടീഷുകാരൻ തെറ്റിദ്ധരിച്ചേക്കാം ഈ സാംസ്കാരിക ധാരണകൾ ചില ഔദ്യോഗിക ഗൈഡ് പുസ്തകങ്ങളിലേക്ക് കടന്നുവന്നിട്ടുണ്ട് പോളണ്ടിനെക്കുറിച്ചുള്ള ഒരു ജനപ്രിയ ഗൈഡ്ബുക്കിന്റെ ബ്രിട്ടീഷ് എഴുത്തുകാർ പോളണ്ടിലെ അപരിചിതരെ നോക്കി പുഞ്ചിരിക്കുന്നത് വിഡ്ഢിത്തത്തിന്റെ അടയാളമാണെന്ന് വിനോദസഞ്ചാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നോർവീജിയൻ സർക്കാർ നോർവീജിയൻ സംസ്കാരത്തിന്റെ സൂക്ഷ്മതയെക്കുറിച്ച് നർമ്മബോധത്തോടെ വിശദീകരിച്ചു ഇങ്ങനെ പറയുന്നു തെരുവിൽ ഒരു അപരിചിതൻ നോർവീജിയക്കാരെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ ഈ അപരിചിതൻ ഭ്രാന്തനാണെന്ന് അവർ കരുതുന്നു ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ വളരെയധികം അർത്ഥമാക്കുന്നില്ല പക്ഷേ പുഞ്ചിരി മനസ്സിലാക്കുന്ന രീതിയിലുള്ള സാംസ്കാരിക വ്യത്യാസങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ അവ നമ്മളെ സഹായിക്കുന്നു പുഞ്ചിരിയുടെ മറ്റൊരു വശം വളരെയധികം പുഞ്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിരന്തരം പുഞ്ചിരിക്കുന്ന വിഡ്ഢികളുടെ വലിയ വിഭാഗത്തെക്കുറിച്ചും ഡാർവിൻ എഴുതിയിട്ടുണ്ട് യാതൊരു കാരണവുമില്ലാതെ പുഞ്ചിരിക്കുന്നത് വിഡ്ഢിത്തത്തിന്റെ അടയാളമാണെന്ന് ഒരു റഷ്യൻ പഴഞ്ചൊല്ല് പറയുന്നു പുഞ്ചിരി തന്നെ സന്തോഷത്തിന്റെ സാർവത്രിക പ്രകടനമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും തെളിവുകൾ സൂചിപ്പിക്കുന്നത് നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പുഞ്ചിരിക്കുന്നു എത്രമാത്രം പുഞ്ചിരിക്കുന്നു മുതലായവ നിയന്ത്രിക്കുന്നത് സംസ്കാരമാണ് അത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു ഉദാഹരണത്തിന് ജർമ്മൻ സംസ്കാരത്തിൽ ഒരു പുഞ്ചിരി സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും വേണ്ടി നീക്കിവച്ചിട്ടുണ്ടെന്നും ഔപചാരിക ആമുഖങ്ങളിൽ ഇത് സംഭവിക്കാനിടയില്ലെന്നും ഗവേഷകർ കണ്ടെത്തി ജോലിയുടെ ആവശ്യങ്ങളിലും ഗൌരവമായി കണക്കാക്കപ്പെടുന്ന അത്തരം സാഹചര്യങ്ങളിലും ഉദാഹരണത്തിന്ആരെങ്കിലും അസുഖം മുതലായവ കൈകാര്യം ചെയ്യുമ്പോഴോ ആശുപത്രിയിൽ കഴിയുമ്പോഴോ ഏറ്റവും ഉചിതമായ പ്രതികരണം പുഞ്ചിരി ഇല്ലാത്ത ഒന്നാണ് പരമ്പരാഗത ചൈനീസ് കുടുംബങ്ങളിലും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമിടയിൽ പുഞ്ചിരി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു എന്നാൽ ഔപചാരിക സാഹചര്യങ്ങളിൽ ഇത് ഇപ്പോഴും പരിമിതമാണ് സമാനമായ പ്രവണതകൾ ചില ഗവേഷകർ വിയറ്റ്നാമീസ് കമ്മ്യൂണിറ്റിയിൽ കാണുന്നു അവിടെ നിശബ്ദത അല്ലെങ്കിൽ വിമുഖതയുള്ള പുഞ്ചിരിയുടെ ഉപയോഗം നെഗറ്റീവ് അർത്ഥങ്ങളുടെ പ്രകടനമായി ഉപയോഗിക്കുന്നുവെന്ന് അവർ കണ്ടെത്തി അതുപോലെ നിരവധി ഏഷ്യൻ സംസ്കാരങ്ങളിൽ ചെറിയ കുറ്റങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നതിന്റെ പ്രകടനമാണ് പുഞ്ചിരി എന്ന് നമ്മൾ കണ്ടെത്തി അധികാരത്തോടുള്ള നമ്മുടെ വ്യത്യാസത്തെയും ഇത് സൂചിപ്പിക്കാം വേദന ദുരിതം തുടങ്ങിയവയുടെ വിഷമകരമായ വികാരങ്ങളും ഇത് ഉൾക്കൊള്ളുന്നുണ്ടാകാം മാത്രമല്ല അപമാനിക്കപ്പെടുമ്പോഴോ ഭീഷണിപ്പെടുത്തുമ്പോഴോ പ്രകോപിപ്പിക്കപ്പെടുമ്പോഴോ പൊരുത്തക്കേടുകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു പുഞ്ചിരിയിലെ സാംസ്കാരിക വ്യതിയാനങ്ങൾ വളരെ രസകരവും സംക്ഷിപ്തവുമായ രീതിയിൽ മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നു യുഎസ് സന്ദർശിക്കുന്ന സഞ്ചാരികൾക്കുള്ള യാത്രാ ഉപദേശം ഒരു ആചാരത്തെ ചൂണ്ടിക്കാണിക്കുന്നു മിക്ക അമേരിക്കക്കാരും അവരുടെ പുഞ്ചിരിയെക്കുറിച്ച് രണ്ടുതവണ ചിന്തിക്കില്ല അമേരിക്കക്കാർ അപരിചിതരോട് ഒരുപാട് പുഞ്ചിരിക്കുന്നുവെന്ന് ഗൈഡ് ടൂറിസ്റ്റുകളോട് വിശദീകരിച്ചു എന്തുകൊണ്ടാണ് അമേരിക്കൻ വളരെയധികം പുഞ്ചിരിക്കുന്നത് മറ്റെല്ലാവർക്കും ഇത് വളരെ വിചിത്രമായിരിക്കുന്നത് എന്തുകൊണ്ട് വളരെ നല്ല കാരണം ഇല്ലാത്തപ്പോൾ പോലും അമേരിക്കക്കാർ പുഞ്ചിരിക്കുന്നതായി തോന്നി ഒരു അമേരിക്കൻ പുഞ്ചിരി കാണുമ്പോൾ അവർക്ക് സന്തോഷമോ ആത്മവിശ്വാസമോ നിഷ്പക്ഷതയോ തോന്നുന്നുണ്ടാകാം ചിലപ്പോൾ മറ്റൊരാൾക്ക് സുഖപ്രദമായ ഒരു അന്തരീക്ഷം നൽകുന്നതിനുള്ള ഉള്ള മര്യാദയുടെ മാർഗ്ഗം മാത്രം ആകാം പുഞ്ചിരിക്ക് സേവനത്തിന് നന്ദി ഇതാ നിങ്ങളുടെ രസീത് വളരെ നന്ദി എന്നിരുന്നാലും മറ്റ് രാജ്യങ്ങളിൽ ഒരു കാരണവുമില്ലാതെ പുഞ്ചിരിക്കുന്നത് നിങ്ങളെ ഒരുതരം വിഡ്ഢിയായി ചിത്രീകരിക്കാം ഒരു ഗവേഷകൻ ജപ്പാൻ ഇന്ത്യ ദക്ഷിണ കൊറിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കണ്ടെത്തിയത് ഇവിടെയെല്ലാം പുഞ്ചിരിക്കുന്ന മുഖമുള്ളവർ ഗൌരവമുള്ള മുഖമുള്ളവരേക്കാൾ ബുദ്ധിശക്തി കുറഞ്ഞവരാണ് എന്ന് കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഒരു രാജ്യത്തിന്റെ അസ്ഥിരതയും പുഞ്ചിരിക്കുന്ന വിഡ്ഢിത്തവും തമ്മിൽ ബന്ധമുണ്ടെന്നതാണ് എല്ലാറ്റിനുമുപരിയായി ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആത്മവിശ്വാസവും സന്തോഷവും നേടാൻ കഴിയും ഇത് സന്തോഷം പ്രകടിപ്പിക്കാൻ തയ്യാറല്ലാത്ത റഷ്യ പോലുള്ള സ്റ്റീരിയോടിപ്പിക്കായ രാജ്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ സഹായിക്കും ഇവിടെ ഫോട്ടോകളിൽ പോലും ആളുകളുടെ പുഞ്ചിരി യഥാർത്ഥമല്ല എൺപതുകളിൽ മക്ഡൊണാൾഡ് റഷ്യയിലേക്ക് പോയപ്പോൾ എങ്ങനെ പുഞ്ചിരിക്കണമെന്ന് അവർക്ക് ജീവനക്കാരെ പരിശീലിപ്പിക്കേണ്ടിവന്നു ഇന്നത്തെ മൊഡ്യൂളിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ശരീരഭാഷയുടെ മറ്റൊരു വശം ഒരാൾ തല നോഡ് ചെയ്യുന്നതും തല കുലുക്കുന്നതു മനസ്സിലാക്കുന്ന രീതിയും ആണ് തലയുമായി ബന്ധപ്പെട്ട നിരവധി ആംഗ്യങ്ങൾ വ്യക്തമായ സ്വീകാര്യമായ അർത്ഥവിഭാഗങ്ങളിൽ പെടുന്നു തല കുലുക്കുക തല നോഡ് ചെയ്യുക എന്നിവയും നമ്മുടെ വികാരങ്ങൾ സന്ദേശങ്ങൾ മുതലായവ ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു പ്രധാന അനിർവചനീയ മാർഗമാണ് പുഞ്ചിരിയോടൊപ്പവും തലയുടെ സ്ഥാനങ്ങൾക്ക് ഒപ്പവും നോഡ് പരിഗണിക്കപ്പെടുന്നു സാധാരണഗതിയിൽ ഇത് ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അതെ എന്ന് സൂചിപ്പിക്കുന്നതിനുള്ള ഒരു പോസിറ്റീവ് ആംഗ്യവും കൈ കുലുക്കുന്നത് സാധാരണയായി മിക്ക സംസ്കാരങ്ങളിലും ഒരു ഇല്ല ആയി കണക്കാക്കപ്പെടുന്നു അതിനാൽ രണ്ടും ജന്മസിദ്ധമായ ആംഗ്യങ്ങളാണെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷേ എന്നിരുന്നാലും അംഗീകരിക്കേണ്ടതാണ് അത് സാമൂഹികവും സാംസ്കാരികവുമായ വ്യാഖ്യാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ മിക്ക സംസ്കാരങ്ങളിലും അതെ എന്ന് കണക്കാക്കപ്പെടുന്നില്ല ഒരു ഷെയ്ക്ക് 'ഇല്ല' എന്ന് കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും സമൂഹങ്ങളുടെ ചില സെഗ്മെന്റുകളും ചില സംസ്കാരങ്ങളും ഉണ്ട് അതിൽ നോഡ് ഒരു 'നോ' എന്നും ഒരു ഷെയ്ഖ് 'അതെ' എന്നും കണക്കാക്കപ്പെടുന്നു പക്ഷേ നോഡിനെക്കുറിച്ച് പൊതുവായി കണ്ടെത്തിയ ധാരണ അതെ എന്നും ഷെയ്ഖ് 'ഇല്ല' എന്നുമായി നമ്മൾ ചർച്ച തുടരും നമ്മൾ സ്വീകാര്യത അംഗീകാരം എന്നിവ കാണിക്കാൻ ഒരു ഹെഡ് നോഡ് ഉപയോഗിക്കുന്നു മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ അവരുടെ ആശയങ്ങൾ മനസിലാക്കാൻ നമുക്ക് കഴിയുന്നുവെന്നും നമ്മൾ അവരോട് നിരന്തരം ശ്രദ്ധാലുവാണെന്നും ഇത് കാണിക്കുന്നു അതേസമയം ആ സമയത്ത് നമ്മൾ വൈകാരികമായി കടന്നുപോകുന്ന കാര്യങ്ങൾ കൈമാറാൻ നമ്മുടെ നോഡുകൾ സഹായിക്കുന്നു അതിനാൽ സ്ഥിരീകരിക്കുന്നതിനും മറ്റ് അനുബന്ധ വികാരങ്ങൾ കൈമാറുന്നതിനുമുള്ള ഈ താളാത്മകമായ ക്യൂ പലപ്പോഴും പുഞ്ചിരിയോ അതിൻറെ അഭാവമോ ചേർന്നു വരുന്നു അതേ സമയം അംഗീകാരത്തിന്റെയോ സ്വീകാര്യതയുടെയോ മറ്റ് അനുബന്ധ അടയാളങ്ങളോടൊപ്പം ചേർന്നു വരുന്നു ഒരു സംഭാഷണത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ ഡബിൾ നോഡ് സ്പീക്കറോട് പറയുന്നു ഒന്നിലധികം ഹെഡ് നോഡുകൾ അല്ലെങ്കിൽ ഒരൊറ്റ സ്ലോ നോഡ് സ്പീക്കറുടെ താളത്തിൽ ഒരു തടസ്സമുണ്ടാക്കാം കാരണം ഒരു സ്പീക്കർ പെട്ടെന്ന് ഈ തരത്തിലുള്ള നോഡിലേക്ക് ആകർഷിക്കപ്പെടാം അമിതവും വേഗത്തിലുള്ളതുമായ ഹെഡ് നോഡുകൾ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വേഗത്തിലാക്കാൻ കഴിയും കൂടാതെ സ്പീക്കറുടെ പ്രതികരണങ്ങൾ വേഗത്തിലാക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നോണ് വെർബൽ ക്യൂ ആണെന്ന് തോന്നിയേക്കാം അനുചിതമായ ഹെഡ് നോഡിംഗ് അല്ലെങ്കിൽ വളരെ വേഗതയുള്ള ഹെഡ് നോഡിംഗ് സാധാരണയായി ഒരു മോശം പെരുമാറ്റമായി കണക്കാക്കപ്പെടുന്നു സംഭാഷണത്തിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം കൂടിയാണിത് ഇത് സ്പീക്കറിന്റെ ശ്രദ്ധ തടസ്സപ്പെടുത്തുകയും ശ്രോതാവിന് കൈമാറുകയും ചെയ്യുന്നു മര്യാദയുള്ളതും ശ്രദ്ധാപൂർവ്വം നോഡ് ചെയ്യുന്നതും നല്ല ശ്രവണ വൈദഗ്ധ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്പീക്കറുമായോ നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയുമായോ നമ്മൾ സിഗ്നൽ നൽകുന്ന ഒരു മാർഗമാണിത് അവർ പറയുന്നതെന്തും നമ്മൾ ശ്രദ്ധിക്കുന്നു നമ്മൾ അവരുമായി ഇടപഴകുന്നു അവർ കൂടുതൽ തുടരണം ശരിയായി ഉപയോഗിച്ചാൽ ഉടനടി ഫീഡ്ബാക്ക് നൽകിക്കൊണ്ട് സ്പീക്കറെ തന്റെ ചിന്തകളെ തൃപ്തികരമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ അനുവദിക്കുന്നു എന്നത് ആണ് ഇതിൻറെ അർത്ഥം ഹെഡ് നോഡ് സംവേദനാത്മക പ്രക്രിയകൾ പരിശോധിച്ചു അവ അഭിമുഖങ്ങളിൽ അന്തർലീനമാണ് അഭിമുഖം നടത്തുന്നവരുടെ തല നോഡുകൾ അഭിമുഖം നടത്തുന്നവരുടെ ശരാശരി ദൈർഘ്യം വർദ്ധിപ്പിച്ചതായി കണ്ടെത്തി ക്ലോർ കണ്ടെത്തി ഏറ്റവും പുതിയ ഒരു ഗവേഷണത്തിൽ ശ്രോതാവിന്റെ ഹെഡ് നോഡുകൾ സ്പീക്കറിന്റെ മൊത്തം വാക്കാലുള്ള ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുമെന്ന് കോ ഫീൽഡ് കണ്ടെത്തി ഇത് ശ്രോതാവിന്റെ ശ്രദ്ധിക്കുന്ന ഹെഡ് നോഡുകൾ സ്പീക്കറെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഒരു സംഭാഷണം അവസാനിച്ചതിനുശേഷം നമ്മൾ പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഹെഡ് നോഡിംഗും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു പ്രത്യേകിച്ചും നമ്മളെ മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമെന്നും നമ്മുടെ ബന്ധത്തിൽ നമ്മൾ പിന്തുണയ്ക്കുന്നുവെന്നും ഉള്ള ആശയം കൈമാറാൻ നമ്മൾ താൽപ്പര്യപ്പെടുമ്പോൾ സംഭാഷണം അവസാനിക്കുമ്പോൾ ഹെഡ് നോഡ് പ്രധാനമാണ് മറ്റുള്ളവർ തുടരാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുവെന്നതിന്റെ ഒരു സൂചന കൂടിയാണിത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾ അവരുടെ ക്ലയന്റുകളെ സ്വയം വെളിപ്പെടുത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു വിവിധ തൊഴിലുകളിൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോൾ തലയാട്ടുന്നത്നോഡിംഗ് മനപൂർവ്വം ഒരു കലയായി കരുതുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഹെഡ് നോഡ് ആംഗ്യങ്ങളുടെ ശക്തിപ്പെടുത്തൽ ഫലങ്ങൾ നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അതിന്റെ പതിവ് ഉപയോഗം മിക്കവാറും എല്ലാ സാമൂഹികവും തൊഴിൽപരവുമായ ഏറ്റുമുട്ടലുകളിൽ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുന്നതിന്റെയും ഉള്ളടക്കവുമായുള്ള സ്വീകാര്യതയുടെയും സൂചകമായി കാണാൻ കഴിയും ഈ വീഡിയോയിൽ ഹെഡ് നോഡിംഗ് ന്റെ പ്രാധാന്യത്തിന്റെ രസകരമായ സംഗ്രഹം നമുക്ക് കാണാൻ കഴിയും ഹെഡ് നോഡ് ഷെയ്ക്ക്ക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന രണ്ട് അടയാളങ്ങളാണ് അതെ അല്ലെങ്കിൽ ഇല്ല സമ്മതിക്കുകയും വിയോജിക്കുകയും ഇതുകൂടാതെ ചലനത്തിന്റെ ദിശയ്ക്ക് മുകളിലേക്കും താഴേക്കും അല്ലെങ്കിൽ ഇടത് വലത് താളവും വേഗതയും വളരെ പ്രധാനമാണ് നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ ആയ എന്തെങ്കിലും അംഗീകരിക്കുമ്പോൾ സ്ലോ നോഡ് ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ആരെങ്കിലും ശരീരഭാഷയെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തുന്നു നമ്മൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം പങ്കിടുന്നു അത് ശരിയാണെന്ന് തോന്നുന്നു നമ്മൾ വിയോജിക്കുന്നുവെങ്കിൽ "ഇല്ല ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല" എന്ന് പതുക്കെ തല കുലുക്കുന്നു വിയോജിപ്പിന്റെ ഉയർന്ന ഘട്ടത്തിൽ എത്തുമ്പോൾ ഉയർന്ന താളത്തിനൊപ്പം ഹെഡ് ഷെയ്ക്ക് കാണാൻ കഴിയും "അല്ല അത് വെറും വിഡ്ഢിത്തമാണ് " ഇതിനു സമാനമാണ് ഫാസ്റ്റ് റിഥം നോഡ് ചെയ്യുന്നതിന് "അതെ ദയവായി തുടരൂ" എന്ന് അർത്ഥമാക്കുന്നു ഇത് ചില പ്രശ്നങ്ങൾക്ക് അടിയന്തിര പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ മീറ്റിംഗുകളിൽ എനിക്ക് പലപ്പോഴും കാണാൻ കഴിയുന്ന ഒന്നാണ് സംഭാഷണത്തിനിടയിലും സ്പീക്കറും ശ്രോതാവും നോഡിംഗ് ഉപയോഗിക്കാം നമ്മൾ ഒരു വ്യക്തിയെ ശ്രദ്ധിക്കുകയും "അതെ ഞാൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്നു" എന്നതിന്റെ അടയാളമായി തലയാട്ടുകയും ചെയ്താൽ തുടരുക എന്നതാണ് അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും സ്പീക്കറിന് പറയാനുള്ളതിൽ താൽപ്പര്യമുണ്ടെന്നും ഇത് കാണിക്കുന്നു നമ്മളോട് യോജിക്കാൻ ശ്രോതാക്കളെ സ്വാധീനിക്കാൻ സഹായിക്കുന്നതിന് സ്പീക്കർ എന്ന നിലയിൽ നമുക്ക് നന്നായി സ്ഥാപിച്ച നോഡുകൾ ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഒരു പ്രസ്താവന നടത്തിയതിനുശേഷം അല്ലെങ്കിൽ വാചാടോപപരമായ ചോദ്യം ചോദിക്കുന്നത് അല്ല നമുക്ക് ശരിക്കും വേണ്ടത് ശ്രോതാവിനെ മനസ്സിലാക്കിപ്പിക്കുകയാണ് വേണ്ടത് എന്റെ അഭിപ്രായത്തിൽ താൽപ്പര്യം കാണിക്കാൻ ലിസണർ നോഡ് വളരെ ഫലപ്രദമാണ് ഞാൻ നിരന്തരം ഇത് ഉപയോഗിച്ചേക്കാം പ്രത്യേകിച്ചും ആഴത്തിലുള്ള വിവരങ്ങൾ നേടാൻ ശ്രമിക്കുന്ന സംഭാഷണങ്ങളിൽ നമുക്ക് താൽപ്പര്യമുണ്ടെന്ന് ഒരു സംഭാഷണ പങ്കാളിയെ കാണിക്കുകയും അവർ പറയുന്നത് അംഗീകരിക്കുകയും ചെയ്താൽ അവർ കൂടുതൽ സംസാരിക്കുന്നു അവർ കാര്യങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ചോ നിലവിലുള്ള ലിങ്കുകളെക്കുറിച്ചോ സംസാരിക്കുന്നു ആ പോയിന്റ് എനിക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നില്ല പോലുള്ള ചില കുഴിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇത് വാതിൽ തുറക്കുന്നു കാരണം നമ്മൾ ഇതിനകം താൽപ്പര്യം വളർത്തുന്നു ചോദ്യം നിയമാനുസൃതമാണെന്ന് തോന്നുന്നു നമുക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണ് നമ്മൾ അവിടെ പത്തുമിനിറ്റ് നിശബ്ദമായി ഇരുന്നു അതേ ചോദ്യം വീണ്ടും ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന ധാരണ സൃഷ്ടിക്കുന്നു തുടക്കം വിലമതിക്കുന്നില്ല അഥവാ 'ഇൻസെപ്ഷൻ നോട്ട് വർത്' എന്ന് വിളിക്കപ്പെടുന്ന ആളുകളെ സ്വാധീനിക്കുന്നതിനായി ഉള്ള നോഡിംഗ് ഇതിൽ തലയുടെ ചരിവുകളും ചായ്വുകളും അവ കൃത്യമായി എന്താണ് നിർദ്ദേശിക്കുന്നതെന്നും നമുക്ക് ഹ്രസ്വമായി നോക്കാം നമ്മുടെ തല വളരെ പ്രാധാന്യമർഹിക്കുന്ന ശരീര സവിശേഷതയാണെന്ന് നമ്മൾ കണ്ടെത്തി കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു വഴക്കമുള്ള കഴുത്തിൻറെ ഘടനയുണ്ട് അതിന് തിരിയാൻ കഴിയും അതിന് മുന്നോട്ട് പോകാം നമുക്ക് തല പിന്നോട്ട് വലിക്കാൻ കഴിയും നമുക്ക് അത് വശങ്ങളിലേക്കും മുന്നോട്ടും പിന്നോട്ടും ചായ്ക്കാനും കഴിയും തലയുടെ ഈ ചലനങ്ങളെല്ലാം അതായത് തലയുടെ വിവിധ ടിൽറ്റുകൾ പ്രത്യേക വികാരങ്ങളെ സൂചിപ്പിക്കുന്നു ആളുകൾ താൽപ്പര്യമുള്ള എന്തെങ്കിലും കാണുമ്പോഴോ അല്ലെങ്കിൽ താൽപ്പര്യമുണർത്തുന്ന എന്തെങ്കിലും കേൾക്കുമ്പോഴോ അവരുടെ തല ഇടത്തോട്ടോ വലത്തോട്ടോ ചായുന്നത് സാധാരണമാണ് സാധാരണയായി ഇത് സൌമ്യവും മര്യാദയുള്ളതുമായ താൽപ്പര്യത്തിന്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു ദൈർഘ്യമേറിയതോ ആഴത്തിലുള്ളതോ ആയ ചരിവ് സമാനുഭാവം സൃഷ്ടിക്കുന്നു അതേ സമയം ഒരു സംഭാഷണ സമയത്ത് നമ്മുടെ തല വലത്തോട്ടോ ഇടത്തോട്ടോ ചരിഞ്ഞിട്ടുണ്ടോ എന്നതിനെ ആസ്പദമാക്കി ഒരു സ്പീക്കർ എന്ന നിലയിലും ശ്രോതാവ് എന്ന നിലയിലും നമ്മുടെ ചിന്താ പ്രക്രിയകളെക്കുറിച്ചുള്ള ചില സൂചനകൾ കൈമാറുന്നു ഈ ഘടകം ഈ മൊഡ്യൂളിനിടെ ഞാൻ പിന്നീട് എടുക്കും ഞാൻ വീണ്ടും അലൻ പീസിനെ പരാമർശിക്കും മൂന്ന് അടിസ്ഥാന ഹെഡ് പൊസിഷനുകൾ ചലനം ഹെഡ് അപ്പ് എന്നത് ഒരു പൊസിഷൻ ആണ് അത് സാധാരണയായി പറയപ്പെടുന്ന കാര്യങ്ങളിൽ നിഷ്പക്ഷ മനോഭാവമുള്ള ഒരു വ്യക്തി ഏറ്റെടുക്കുന്ന പൊസിഷൻ ആണ് സാധാരണഗതിയിൽ അതിനെ പിന്തുണയ്ക്കുകയോ പരിഷ്ക്കരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ വിരൽ ചലനങ്ങളിൽ കൈകോർക്കുക എന്ന് പറയട്ടെ തലയുടെ പൊസിഷൻ സംഭാഷണത്തിനിടയിലും സ്ഥിരമായിരിക്കും അല്ലെങ്കിൽ ആ സംഭാഷണത്തിന് ഇടയ്ക്കിടെയുള്ള ചെറിയ നോഡുകൾ ഉപയോഗിച്ച് വിരാമമിടാം അതിനാൽ ഈ പ്രത്യേക ആംഗ്യത്തിൽ നമ്മൾ കൈകളും വിരലുകളും ചേർത്തു അവതരിപ്പിക്കുമ്പോൾ അത് ഒരു മൂല്യനിർണ്ണയ സവിശേഷതയായി മാറുകയും അടിസ്ഥാന അർത്ഥത്തിൽ വ്യത്യസ്ത ഷേഡുകൾ ചേർക്കുകയും ചെയ്യുന്നു ഇവയിൽ ചിലത് കൈ വിരൽ സ്ഥാനങ്ങളും ആംഗ്യങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ നോക്കും താടി പുറത്തെടുത്ത് തല ഉയർത്തുമ്പോൾ അത് വളരെ ശക്തമായ ആത്മവിശ്വാസം ശ്രേഷ്ഠത അഹങ്കാരം അതേ സമയം നിർഭയമനോഭാവം എന്നിവ നിർദ്ദേശിക്കുന്നു ഉപബോധമനസ്സോടെ ഈ ഭാവം സ്വീകരിക്കുന്ന ആളുകൾ തൊണ്ട തുറന്നുകാട്ടുന്നുവെന്നും മറ്റുള്ളവരെ ഭയപ്പെടുന്നില്ലെന്ന് സൂചിപ്പിക്കുകയും ഒരു തരത്തിൽ അവർ മറ്റുള്ളവരെ താഴ്ത്തി കാണുന്നു എന്നും പീസ് അഭിപ്രായപ്പെട്ടു സാധാരണഗതിയിൽ ഇത് ശ്രേഷ്ഠതയുടെയും അഹങ്കാരത്തിന്റെയും ആംഗ്യമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ വളരെ ആത്മവിശ്വാസമുള്ളവരും നിർഭയ മനോഭാവമുള്ളവരുമായ ആളുകൾ പലപ്പോഴും ഈ പ്രത്യേക ആംഗ്യം അശ്രദ്ധമായി പ്രദർശിപ്പിക്കുന്നതായി കാണാൻ കഴിയും റ്റിൽറ്റിംഗ് പലപ്പോഴും 'മതിയായ' സിഗ്നലായി കണക്കാക്കപ്പെടുന്നു കാരണം ഇത് മറ്റ് ആളുകളിലേക്ക് നമ്മുടെ കഴുത്ത് തുറന്നുകാട്ടുന്നു ഈ ബന്ധം ആദ്യമായി ശ്രദ്ധിച്ചത് ചാൾസ് ഡാർവിനാണ് മനുഷ്യരും മൃഗങ്ങളും അവർ എന്തെങ്കിലും താൽപ്പര്യമുള്ളവരാകുകയും ആക്രമണോത്സുകരാകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു വശത്തേക്ക് തല ചായ്ക്കാമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ലിംഗഭേദം അടിസ്ഥാനമാക്കിയുള്ള വശം റ്റിൽറ്റിംഗ്മായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കു കാണാം കഴിഞ്ഞ നൂറ്റാണ്ടുകളായി പെയിന്റിംഗുകളെക്കുറിച്ചുള്ള ഒരു പഠനം കാണിക്കുന്നത് പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ത്രീകളുടെ തല ചരിവ് ഉപയോഗിച്ചാണ് അവരെ കൂടുതൽ ചിത്രീകരിക്കുന്നത് പരസ്യങ്ങളിലും സ്ത്രീകൾ പലപ്പോഴും തല റ്റിൽറ്റ് ചെയ്യുന്നതായി കാണിക്കാറുണ്ട് വ്യത്യസ്ത സമൂഹങ്ങളിലെ പുരുഷന്മാരേക്കാൾ മൂന്നിരട്ടിയാണ് ഇത് സ്ത്രീകളിൽ കാണുന്നത് എന്ന് ഗവേഷകർ പറയുന്നു ലൈംഗിക താൽപ്പര്യത്തിന്റെ ആംഗ്യമായിട്ടാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത് മിക്ക ആളുകളും അവബോധജന്യമായ തലത്തിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെങ്ങനെയെന്നും കഴുത്തിലെ റ്റിൽറ്റ് കാണിക്കുന്നു പുരുഷന്മാരുമായുള്ള ബിസിനസ്സ് ചർച്ചകളിലും ഒരു തല റ്റിൽറ്റ് ഇടയ്ക്കിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും സമർപ്പിക്കൽ പ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നു അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ കാര്യങ്ങൾ അംഗീകരിക്കുമെന്നതിന്റെ സൂചനയാണ് അതിനാൽ ഏത് ചർച്ചകളിലും സ്ത്രീകൾ എല്ലായ്പ്പോഴും തല ഉയർത്തിപ്പിടിക്കാൻ നിർദ്ദേശിക്കുന്നു ഒരു അവതരണത്തിനിടയിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രസംഗം നടത്തുമ്പോഴോ മറ്റ് ആളുകളുടെ മനസ്സിൽ ഏത് തരത്തിലുള്ള ചിന്താ രീതികളാണ് നടക്കുന്നതെന്ന് മനസിലാക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നു പ്രേക്ഷകർ തല ചായ്ച്ച് താടിയും കൈയും കൊണ്ട് മൂല്യനിർണ്ണയ സവിശേഷതകൾ ഉപയോഗിച്ച് മുന്നോട്ട് ചായുന്നത് നിങ്ങൾ കാണുമ്പോൾ ആളുകൾ ഉള്ളടക്കത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുവെന്ന് നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോൾ ഹെഡ് ടിൽറ്റുകളും ഹെഡ് നോഡുകളും ഉപയോഗിക്കുന്നു കൂടാതെ ശ്രോതാവിന് നിങ്ങളോട് വിശ്വാസമുണ്ടെന്ന് തോന്നാൻ തുടങ്ങും കാരണം നിങ്ങൾ താൽപ്പര്യമുള്ളവരും ഭീഷണിപ്പെടുത്താത്തവരുമായി കാണപ്പെടും ഇപ്പോൾ നമ്മുടെ വലതുകൈയും ഇടതുകൈയും ചേർത്തു തലയുടെ ചരിവുകൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തി തല വലതുവശത്തേക്ക് ചരിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ തുറന്നതായി അനുഭവപ്പെടും കാരണം നിങ്ങൾ തലച്ചോറിന്റെ സൃഷ്ടിപരമായ ഭാഗം ഉപയോഗിക്കുന്നു നിങ്ങളുടെ തല ഇടതുവശത്തേക്ക് ചരിഞ്ഞാൽ പറയുന്നത് ബുദ്ധിപരമായി വിശകലനം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് നിങ്ങളുടെ തല വലതുവശത്തേക്ക് ചായുന്നത് നിങ്ങളെ സത്യസന്ധനും ആശ്രയയോഗ്യനുമായി കാണിക്കുന്നുവെന്നും നിങ്ങളുടെ തല ഇടതുവശത്തേക്ക് ചായുന്നത് നിങ്ങളെ കൂടുതൽ ആകർഷകമാക്കുന്നുവെന്നും 2006 ലെ ഒരു പഠനം കണ്ടെത്തി അതിനാൽ ഓപ്ഷൻ ഒന്നുകിൽ ആകർഷകമായ വ്യക്തിയായി കാണപ്പെടുകയോ അല്ലെങ്കിൽ കൂടുതൽ സത്യസന്ധനും ആശ്രയയോഗ്യവുമായ വ്യക്തിയോ ആയി കാണപ്പെടുകയാണ് തല ചായക്കുന്നത് പലപ്പോഴും വിശ്വാസത്തിന്റെ അടയാളമായിട്ടാണ് കാണപ്പെടുന്നത് ഇത് സമാനുഭാവത്തിന്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു കാരണം ഇത് അടിസ്ഥാനപരമായി ഭീഷണിപ്പെടുത്താത്ത ആംഗ്യമാണ് മുമ്പത്തെ സ്ലൈഡിൽ ചർച്ച ചെയ്തതുപോലെ ഇത് വിധേയത്വത്തിന്റെ ഒപ്പായി കണക്കാക്കാം ഡയാന രാജകുമാരി ഈ പ്രത്യേക തല ആംഗ്യവും വളരെ പ്രസിദ്ധമാക്കി ഇത് ആഹ്ലാദകരവും ഫോട്ടോഗ്രാഫിക് പോസുമാണ് എന്നിരുന്നാലും ചില വിദഗ്ധർ ദുഖത്തിന്റെ ഒരു പ്രവചനമായി ഇത് വായിച്ചിട്ടുണ്ട് തലയും താടി താഴേക്കുള്ള സ്ഥാനം നിഷേധാത്മകവും വിവേചനപരവുമായ മനോഭാവത്തെ സൂചിപ്പിക്കുന്നു ഈ പ്രത്യേക സ്ഥാനം പ്രദർശിപ്പിക്കുന്ന വ്യക്തിയിൽ ചില ആക്രമണ പ്രവണതകളും ഉണ്ടെന്നും ഇത് സൂചിപ്പിക്കുന്നു ക്രിട്ടിക്കൽ മൂല്യനിർണ്ണയ ക്ലസ്റ്ററുകൾ സാധാരണയായി ഹെഡ് ഡൌൺക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്ഥാനവുമായി കൈയുടെയും വിരലുകളുടെയും ബന്ധം ഈ നിലപാടുകളെ കൂടുതൽ വഷളാക്കുകയോ നേർപ്പിക്കുകയോ ചെയ്യുന്നു സംഭാഷണത്തിൽ ഒരു വ്യക്തി ഈ പ്രത്യേക ആംഗ്യമോ ഭാവമോ സ്വീകരിക്കുന്നത് തുടരുകയാണെങ്കിൽ അത് മനപൂർവ്വം പ്രതികരണത്തിന്റെ അഭാവമായി കണക്കാക്കേണ്ടതുണ്ട് വ്യക്തി സംഭാഷണത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ പ്രൊഫഷണൽ അവതാരകരെയും പരിശീലകരെയും പലപ്പോഴും അഭിമുഖീകരിക്കുന്നത് തല താഴ്ത്തി ഇരിക്കുന്ന കൈ ക്രോസ്സായി മടക്കി വച്ചിരിക്കുന്ന പ്രേക്ഷകരാണ് അതിനാൽ പരിചയസമ്പന്നരായ ആളുകളും പ്രതിരോധവും മറ്റും കുറയ്ക്കുന്നതിന് പരിശീലനം നേടിയ ആളുകളും പ്രേക്ഷകരെ ഉൾപ്പെടുത്തുന്നതിനും അവരുടെ സംഭാഷണം അല്ലെങ്കിൽ പ്രൊഫഷണൽ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അവതരണങ്ങൾ ആരംഭിക്കുന്നതിനുമുമ്പ് അവരുടെ പങ്കാളിത്തം നേടുന്നതിനും സജീവമായി ചില നടപടികൾ കൈക്കൊള്ളും ഈ പ്രത്യേക ഹെഡ് ഡൌൺ ചലനം തകർക്കുന്നതിലൂടെ എങ്ങനെയെങ്കിലും വ്യക്തിയിൽ ചില ഇടപെടലുകൾ ആരംഭിക്കുന്നതിന് നമ്മൾ വ്യത്യസ്ത തരം ഐസ്ബ്രേക്കറുകൾ ഉപയോഗിച്ചേക്കാം അതിനാൽ നമ്മുടെ തന്ത്രങ്ങൾ വിജയകരമാണെങ്കിൽ പ്രേക്ഷകർക്ക് തല ഉയർത്താൻ കഴിയും അടുത്ത തലയുടെ പൊസിഷൻ ടിൽറ്റ് ആയിരിക്കും വലതു കൈ അല്ലെങ്കിൽ ഇടത് കൈ ടിൽറ്റ് ആയിരിക്കും ഈ വ്യക്തിയുടെ വീക്ഷണകോണിൽ നിന്നുള്ള താൽപ്പര്യത്തിന്റെ ആരംഭ പോയിന്റായിരിക്കും അത് ഈ പ്രത്യേക വീഡിയോയിൽ ഹെഡ് ടിൽറ്റുകളും അവയുടെ പെയിന്റിംഗുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നു ഹെഡ് പൊസിഷനിംഗ് ഹെഡ് ടിൽറ്റ് ശ്രോതാക്കൾക്ക് പുറമെ സംഭാഷണത്തിൽ താൽപ്പര്യം സൂചിപ്പിക്കുന്നതിനും നമുക്ക് തലയും ഹെഡ് ടിൽറ്റ് ഉപയോഗിക്കാം ഇത് താൽപ്പര്യത്തിന്റെ അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ ഞാൻ സുഖമായിരിക്കുന്നു ഞാൻ സ്വീകാര്യനാണ് എന്നതിൻറെ അടയാളമായി വിശേഷിപ്പിക്കപ്പെടുന്നു ഞാൻ ഒരു നായയുടെ ചിത്രം കാണിച്ചു കാരണം എന്റെ അഭിപ്രായത്തിൽ ഈ അടയാളം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ഇതിൽ ഉണ്ട് തമാശയുള്ള കാര്യം എന്തുകൊണ്ടാണ് നായ്ക്കൾ ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വിവാദപരമായ അടയാളങ്ങളിൽ ഒന്നാണ് ഇതിനു വിശദീകരണങ്ങൾ ഒരുപാടുണ്ട് താൽപ്പര്യമുണ്ട് എന്ന വിശദീകരണത്തിൽ തുടങ്ങി വിശദീകരണങ്ങൾ ഒരുപാടുണ്ട് അതിനാൽ ചരിഞ്ഞ തല കഴുത്തിന്റെ വശത്തുള്ള കരോട്ടിഡ് ധമനിയെ തുറന്നുകാട്ടുന്നു ഇത് സമർപ്പണത്തിന്റെയും അടയാളപ്പെടുത്തലിന്റെയും അടയാളമായിരിക്കാം എനിക്കറിയില്ല ഹെഡ് ടിൽറ്റ്സ്സിൽ എന്റെ അനുഭവങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം ശ്രോതാക്കളുടെ അംഗീകാരത്തിനായി ഞാൻ ഒരു ബദൽ തിരയുകയാണ് ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഒരാളെ ഒരു ബോബൾ ഹെഡ് ആയി കണക്കാക്കുന്നു ഏകദേശം ഒരു വർഷത്തോളം ഹെഡ് ടിൽറ്റ്നു ശേഷം പ്രധാനമായും രണ്ട് പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചു ആദ്യം ഒന്നുമില്ല എന്നതാണ് രണ്ടാമത് ആശയക്കുഴപ്പം ഞാൻ എന്റെ തല ടിൽറ്റ് ചെയ്ത നിമിഷം എനിക്ക് തൽക്ഷണം കാണാൻ കഴിഞ്ഞു എന്താണ് മുഖത്ത് അദ്ദേഹം പ്രകടനം നടത്തുന്നത് എന്ന് മാത്രമല്ല മറ്റാരെങ്കിലും ഹെഡ് ടിൽറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല താൽപര്യം വളർത്തുന്നതിനല്ല മറിച്ച് ഹെഡ് ടിൽറ്റുകൾ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കാനും കാണാൻ കഴിയുന്നതും ടെലിവിഷനിലൂടെ ആണ് ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ അമ്മയെ എങ്ങനെ കണ്ടുമുട്ടി എന്ന ഷോയിൽ സീസൺ രണ്ട് എപ്പിസോഡ് ഏഴ് അതിൽ നായകൻ വിവരിക്കുന്നു ടെഡ് ചെറുതായി തല ടിൽറ്റ് ചെയ്തിരിക്കുന്നു ദുർബലതയുടെ ഒരു അർത്ഥം നൽകാൻ ഈ വീഡിയോയിൽ ഒരു തല ടിൽറ്റ്ന്റെ വ്യാഖ്യാനം വിരമിച്ച എഫ്ബിഐ ഏജന്റ് ജോ നവാരോ അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ അനുഭവം അതിനെ വളരെ മൂല്യവത്തായ ഉൾക്കാഴ്ച നൽകുന്നു ഹെഡ് ടിൽറ്റ് ഒരുപക്ഷേ ആശ്വാസത്തിന്റെ ഏറ്റവും മികച്ച സൂചകങ്ങളിലൊന്നാണ് ഒരുപക്ഷേ ഒരു പുഞ്ചിരിയേക്കാൾ ശക്തമാണ് കാരണം മിക്ക ആളുകൾക്കും ഒരു വ്യാജമായ പുഞ്ചിരി നൽകാൻ കഴിയും പക്ഷേ നമ്മൾ ശരിക്കും സുഖമായിരിക്കുമ്പോൾ മാത്രമേ ഹെഡ് ടിൽറ്റ് ചെയ്യാറുള്ളൂ ആരെങ്കിലും നമ്മിൽ ശരിക്കും വിശ്വസിക്കുമ്പോൾ അവർ നമ്മോടൊപ്പം സുഖമായിരിക്കുകയാണെങ്കിൽ അവർ ഹെഡ് ടിൽറ്റ് ചെയ്യും ഒരു ജീവിവർഗമെന്ന നിലയിൽ നാം തുറന്നുകാട്ടുന്നില്ല നമ്മൾ ശരിക്കും സുഖമായിഇരിക്കുന്നതുവരെ വാസ്തവത്തിൽ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയാണ് നിങ്ങൾ നെഗറ്റീവ് എന്തെങ്കിലും പരാമർശിക്കുകയും ഉടൻ തന്നെ അവരുടെ തല പോപ്പ് അപ്പ് ആകുകയും ചെയ്യും കാരണം ഇത് എന്റെ കഴുത്ത് തുറന്നുകാട്ടാത്ത ഒരു അതിജീവന പ്രതികരണമാണ് എന്റെ ചർച്ചയ്ക്കിടെ നമ്മുടെ തല എടുക്കുന്ന പ്രധാന സ്ഥാനങ്ങൾ പ്രധാന തരം പുഞ്ചിരി തുടങ്ങിയവ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു ചർച്ചയിൽ നിന്ന് വിട്ടുപോയ മറ്റ് നിരവധി വശങ്ങളുണ്ട് നമ്മുടെ ചലനങ്ങൾ ആംഗ്യങ്ങൾ ഭാവങ്ങൾ എന്നിവയുടെ ക്ലസ്റ്ററുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവയിൽ പലതും പഠിക്കേണ്ടതുണ്ട് ചിലത് ഇപ്പോഴും വിട്ടുപോയിരിക്കാം പക്ഷേ അവ നമ്മുടെ തത്സമയ സെഷനുകളിൽ എടുക്കാം